ആംഗുലാർ മെഷർമെൻറ് എന്ന അടുത്ത വിഷയത്തിലേക്ക് സ്വാഗതം എഞ്ചിനീയറിംഗിൽ ഒരു നേർരേഖ വരയ്ക്കാനും ഒരു ആർക് വരയ്ക്കാനും നമ്മൾക്കറിയാമെങ്കിൽ സങ്കീർണ്ണമായ ജ്യോമെട്രികളെ വരകളിലേക്കും ആർക്കുകളിലേക്കും വിഭജിക്കാം ഇത് വരയ്ക്കാൻ അറിയാമെങ്കിൽ സങ്കീർണ്ണമായ ഘടനകൾ വരയ്ക്കാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നു അതേ സാദൃശ്യത്തിൽ നിങ്ങൾ ഇത് അളവുകൾക്കായി എടുക്കുകയാണെങ്കിൽ ഒരു നേർരേഖ അളക്കാൻ അറിയാമെങ്കിൽ ആംഗിളിന്റെയും ദൂരത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു ആർക്ക് അളക്കാൻ എനിക്ക് കഴിയും ഒപ്പം എനിക്ക് നൽകിയ സങ്കീർണ്ണമായ ജ്യോമെട്രികളെ അളക്കാൻ കഴിയും അതിനാൽ തീർച്ചയായും നിങ്ങളുടെ സജ്ജീകരണം നിങ്ങൾ കെട്ടിപ്പടുക്കണം അതായത് ആംഗുലാർ മെഷർമെൻറ് ചെയ്യാൻ ശ്രമിക്കുന്നു ആംഗുലാർ മെഷർമെൻറ് ഇവിടെ രണ്ട് സവിശേഷതകൾക്കിടയിലോ രണ്ട് വരകൾക്കിടയിലോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആംഗിൾ സബ്ടെൻഡുചെയ്തു ഇത് ഗിയറുകളിൽ ഉപയോഗിക്കാം ഇത് ത്രെഡുകളിലും ത്രെഡ് പ്രൊഫൈൽ threads thread profile അളക്കുന്നതിനും ഉപയോഗിക്കാം ഇത് ജിഗുകൾക്കും ഉപയോഗിക്കാം ഇത് ജിബുകൾക്കും ഉപയോഗിക്കാം ശരി അതിനാൽ ആംഗുലാർ അളവ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ചില സ്ഥലങ്ങൾ ഇവിടെയുണ്ട് നിങ്ങൾ ആംഗുലാർ അളവ് നോക്കുകയാണെങ്കിൽ ഇവ ചില ഉപകരണങ്ങളാണ് അവ നമ്മൾ കൂട്ടിച്ചേർക്കും നമ്മൾ അത് വിശദമായി കാണും നിങ്ങൾക്ക് ഇവിടെ ഒരു സ്കെയിൽ ഉണ്ട് ശരി ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ബേസ് flat plateflat base ഉണ്ട് ഇത് മുഴുവൻ ഉപകരണത്തിന്റേയും റഫറൻസാണ് ഈ റഫറൻസ് മറ്റൊരു റഫറൻസിന് എതിരായിരിക്കണം അത് കുറ്റമറ്റ രീതിയിൽ ആയിരിക്കണം എങ്കിൽ മാത്രമേ ആംഗിൾ അളക്കാൻ ആരംഭിക്കൂ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് റഫറൻസിന് എതിരായി റഫറൻസ് ഉപരിതലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലെങ്കിൽ ഈ ഉപകരണങ്ങൾ പിശക് നൽകാൻ ശ്രമിക്കും കാരണം ഇത് ഒരു ആപേക്ഷിക അളവാണ് അത് എടുക്കുന്നു രണ്ട് റഫറൻസ് തലം തമ്മിൽ എറർ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നതെന്തും ആ ആംഗിൾ നിങ്ങളുടെ ഫലത്തിൽ ചേർക്കും എന്ന് കരുതുക ഈ വിഷയത്തിൽ നമ്മൾ ആദ്യത്തെ ആമുഖം കാണാൻ ശ്രമിക്കും തുടർന്ന് നമ്മൾ പ്രൊട്രാക്റ്റർ കാണാൻ ശ്രമിക്കും അത് സ്കൂൾ തലത്തിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചു ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മൾ ഒരു സാർവത്രിക ബെവൽ പ്രൊട്രാക്റ്റർ കാണും തുടർന്ന് സൈൻ ബാർ സൈൻ സെന്റർsine bar sine centerചെരിവുകളുടെ അളവ് ചെയ്യാൻ സാധാരണയായി ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ലെവൽ ക്ലിനോമീറ്ററുകൾ ഓട്ടോകോളിമേറ്റർ ഇവ നമ്മൾ അത് ഉപയോഗിക്കും കൃത്യമായ കോണുകൾ അളക്കുന്നതിന് ഓട്ടോകോളിമേറ്റർ ഉപയോഗിക്കുന്നു അത് പരന്ന പ്രതലത്തിലാണ് ശരി ആംഗിൾ അറിയാം നിങ്ങൾക്ക് ഡിഗ്രികളിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും ദൂരത്തിലേക്ക് പരിവർത്തനം ചെയ്യാം നിങ്ങൾക്ക് മൈക്രോണുകളായി പരിവർത്തനം ചെയ്യാം നിങ്ങൾക്ക് ഫലങ്ങൾ റിപ്പോർട്ടുചെയ്യാം ഒരു വൃത്തവുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ ഒരു കോണിന്റെ മാനദണ്ഡം മനുഷ്യനിർമ്മിതമല്ല മറിച്ച് പ്രകൃതിയിൽ നിലനിൽക്കുന്നു ഇതിനെ ഡിഗ്രി അല്ലെങ്കിൽ റേഡിയൻസ് degreeradians എന്ന് വിളിക്കാം ഇതാണ് യൂണിറ്റുകൾ മെട്രോളജിയിൽ കാണുക നമ്മൾ ചെയ്യുന്നത് അത് ഒരു അളവുകോൽ ശാസ്ത്രമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു യൂണിറ്റ് നേടാൻ ശ്രമിക്കും ഈ യൂണിറ്റുകൾ വളരെ പ്രധാനമാണ് ശരി അത് മൈക്രോണുകളിൽ ആകാം ഇത് റേഡിയനുകളിൽ ആകാം ഇപ്പോൾ അത് റേഡിയൻസിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരികെ പ്ലേ ചെയ്യാനും മൈക്രോണുകളിൽ ഒരു ലീനിയർ സ്കെയിലിലേക്ക് പ്രവേശിക്കാനും കഴിയും ഇതാണ് നൽകുന്നത് അതിനാൽ പത്ത് മൈക്രോൺ പത്ത് ഡിഗ്രി ലീനിയർ മെഷർമെന്റ് പരിശോധിക്കാൻ ആരംഭിക്കുമ്പോൾ മൈക്രോൺ മില്ലിമീറ്റർ മീറ്റർ എന്നിവയെല്ലാം റിപ്പോർട്ടുചെയ്യാൻ നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കും ആംഗിൾ അളക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഡിഗ്രി റേഡിയൻ എന്നിവയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് നമ്മൾ ഈ ഡിഗ്രി എടുത്ത് ഒരു ലീനിയർ സ്കെയിലിലേക്ക് പരിവർത്തനം ചെയ്യാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നെങ്കിൽ നമ്മൾ യൂണിറ്റുകളെ ഡിഗ്രിയിൽ നിന്നും മൈക്രോണുകളിലേക്കോ മില്ലിമീറ്ററിലേക്കോ പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നു ശരി ഒരാൾ അതിനെ ഡിഗ്രി അല്ലെങ്കിൽ റേഡിയൻസ് എന്ന് വിളിച്ചേക്കാം പക്ഷേ സർക്കിളുമായി ഇതിന് നേരിട്ടുള്ള ബന്ധമുണ്ടെന്ന വസ്തുത അവശേഷിക്കുന്നു ഇത് ഒരു രേഖയുടെ ഒരു അരികിലേക്ക് നീങ്ങുന്നു ഒരു ഘട്ടത്തിൽ കണ്ടുമുട്ടുന്ന രണ്ട് രേഖകൾക്കിടയിലുള്ള ഓപ്പണിംഗ് എന്നാണ് ആംഗിൾ നിർവചിച്ചിരിക്കുന്നത് രണ്ട് രേഖകൾ നിർവചനം ശരിയായി ചെയ്തിട്ടില്ലെങ്കിൽ രണ്ട് രേഖകൾക്കിടയിൽ തുറക്കുന്നത് ഒരിക്കലും കണ്ടുമുട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ആംഗിൾ ലഭിക്കില്ല നമ്മൾ ഒരു ആംഗിൾ അളക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇത് ഒരു ഘട്ടത്തിൽ കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ചിലപ്പോൾ ഒരു ആംഗിൾ അളക്കലിന്റെ പ്രാഥമിക ലക്ഷ്യം ആംഗിൾ അളക്കുകയല്ല മറിച്ച് ഒരു മെഷീൻ ഭാഗത്തിന്റെ വിന്യാസം വിലയിരുത്തലാണ് ഒരു ഉപ അസംബ്ലി അല്ലെങ്കിൽ സമ്പൂർണ്ണ ഉൽപ്പന്നം രൂപപ്പെടുത്തുന്നതിനായി ഈ ഭാഗങ്ങൾ ഒന്നിച്ച് ചേർക്കുമ്പോൾ ആംഗിൾ അളക്കൽ വളരെ പ്രധാനമാണ് തെറ്റായ വിന്യാസത്തിന്റെ പിശകാണ് ആംഗിൾ റീഡിംഗ് അളക്കുന്നത് ഉദാഹരണത്തിന് സ്പിൻഡിൽ റൺ ഔട്ട് ശരി സ്പിൻഡിൽ റൺ ഔട്ട് അല്ലെങ്കിൽ വർക്ക് പീസ് റൺ ഔട്ട് ഇവയെല്ലാം എളുപ്പത്തിൽ കണ്ടെത്താനാകും ലളിതമായ സ്കെയിൽ ചെയ്ത ഉപകരണം മുതൽ സങ്കീർണ്ണമായ തരം വരെയുള്ള ഉപകരണങ്ങൾ ആംഗിൾ അളക്കുന്നതിന് ഉണ്ട് ലേസർ ഇന്റർഫെറോമീറ്റർ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്ന നിരവധി ഉപകരണങ്ങളുണ്ട് ഒരു വെർനിയർ പ്രൊട്ടക്റ്റർ ഒരു ഉപകരണമാണ് തന്നിരിക്കുന്ന വർക്ക് പീസിനെതിരെ കൃത്യമായി സ്ഥാപിക്കാനും അളവ് ലോക്ക് ചെയ്യാനുമുള്ള ഒരു മെക്കാനിക്കൽ പിന്തുണയോ അല്ലെങ്കിൽ ലളിതമായ സംവിധാനമോ നമ്മൾ കാണും അതിനാൽ ഈ എല്ലാ വെർനിയർ കാലിപ്പറിലും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലായ്പ്പോഴും ഒരു ലോക്കിംഗ് നട്ട് അല്ലെങ്കിൽ ലോക്കിംഗ് സ്ക്രൂ ഉണ്ടായിരിക്കും അത് നമ്മൾ ഒരു കോണിൽ സൂക്ഷിക്കുന്നു തുടർന്ന് നമ്മൾ അത് ലോക്ക് ചെയ്യുന്നു തുടർന്ന് നമ്മൾ അത് വർക്ക് പീസിൽ നിന്ന് പുറത്തെടുക്കുന്നു തുടർന്ന് എന്താണ് അളക്കൽ എന്ന് കാണുക സ്പിരിറ്റ് ലെവലും സാർവത്രികമായി ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് വളരെ വലിയ ഉപരിതല പ്ലേറ്റ് ഉണ്ട് ഒരു ഉപരിതല പ്ലേറ്റിന്റെ വ്യതിയാനം എന്താണെന്ന് നിങ്ങൾക്ക് കണക്കാക്കണമെങ്കിൽ സാധാരണയായി നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ നമ്മൾ പല പോയിന്റുകളിൽ നിന്ന് വ്യതിചലിപ്പിക്കാനും ഒരു മാട്രിക്സ് രൂപീകരിക്കാനും കണ്ടെത്താനും ശ്രമിക്കുക നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്പിരിറ്റ് ലെവൽ ഉപയോഗിക്കുന്നു അത് പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നു കൂടാതെ കേന്ദ്രത്തിൽ നിന്ന് ഇരുവശങ്ങളിലേക്കും കോണിന്റെ ചെരിവ് എന്താണെന്ന് കാണുക അവിടെ നിന്ന് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു നമ്മൾക്ക് ആംഗിൾ മെഷർമെന്റ് ലഭിക്കുന്നു കോണിൽ നിന്ന് ലീനിയർ എറർ അല്ലെങ്കിൽ സ്ഥാനചലനം എന്താണെന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു ശരി വിവിധ എഞ്ചിനീയറിംഗ് മേഖലകളിലെ ബീമുകളും കോളമുകളും പോലുള്ള ഘടനാപരമായ അംഗങ്ങളെ വിന്യസിക്കുന്നതിന് സ്പിരിറ്റ് ലെവലിൽ സാർവത്രിക പ്രയോഗമുണ്ട് പരന്ന പ്രതലമുണ്ടോയെന്ന് അളക്കാൻ മേസന്റെ സ്പിരിറ്റ് ലെവൽ ഉപയോഗിക്കുന്നു പരമ്പരാഗത അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്ലിനോമീറ്ററുകൾ സ്പിരിറ്റ് ലെവലിന്റെ അടിസ്ഥാന തത്ത്വം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് പക്ഷേ വളരെ ഉയർന്ന റെസല്യൂഷനുകൾ ഉണ്ട് അവസാനമായി ഒപ്റ്റിക്കൽ ഉപകരണങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട കോളിമേറ്ററും ആംഗിൾ ഡെക്കോറുകളും കോണീയ അളവെടുപ്പിനായി ഉപയോഗിക്കുന്നു ഇതൊരു ലളിതമായ പ്രൊട്ടാക്റ്ററാണ് സ്കൂൾ ദിവസങ്ങളിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു അതിനാൽ നമ്മൾ കേന്ദ്രത്തിൽ ഫിക്സ് ചെയ്യുന്നു നമ്മൾക്ക് 0 മുതൽ 180 വരെ ഡിഗ്രി വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് 0 മുതൽ 180 വരെ ആകാം അല്ലെങ്കിൽ 360 ഡിഗ്രി വരെ തുടരാം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ എണ്ണം 1 ഡിഗ്രി ആകാം അത് ഒരു വലിയ വ്യാസമുള്ള പ്രൊട്ടാക്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അര മില്ലിമീറ്ററോളം അര ഡിഗ്രി വരെ ആകാം ഉദാഹരണത്തിന് ഉപകരണത്തിന്റെ ഉപരിതലം വസ്തുവിന്റെ ഉപരിതലത്തിന് സമാന്തരമായിരിക്കണം അതിനാൽ ഇത് വളരെ പ്രധാനമാണ് ഉപകരണത്തിന്റെ ഉപരിതലം എവിടെയെങ്കിലും വസ്തുവിന്റെ ഉപരിതലത്തിന് സമാന്തരമായിരിക്കണം കൂടാതെ പ്രൊട്ടക്റ്ററിന്റെ റഫറൻസ് ലൈൻ കോണിന്റെ റഫറൻസ് ലൈനുമായി തികച്ചും യോജിക്കണം അതിനാൽ ഇത് വളരെ സാധുവായ പോയിന്റാണ് ഉപകരണത്തിന്റെ ഉപരിതലം വസ്തുവിന്റെ ഉപരിതലത്തിന് സമാന്തരമായിരിക്കണം പോയിന്റ് നമ്പർ 1 പ്രൊട്ടക്റ്ററിന്റെ റഫറൻസ് ലൈൻ ആംഗിളിന്റെ റഫറൻസ് ലൈനുമായി തികച്ചും യോജിക്കുന്നു ശരി ലളിതമായ പ്രൊട്ടക്റ്ററിന് ധാരാളം പരിമിതികളുണ്ട് അത് ഉപയോഗിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം എന്നിരുന്നാലും പ്രധാന സ്കെയിലോ വെർനിയർ സ്കെയിലോ കറക്കാവുന്ന ബ്ലേഡോ കൈവശം വയ്ക്കാവുന്ന കുറച്ച് കൂട്ടിച്ചേർക്കൽ അല്ലെങ്കിൽ ലളിതമായ സംവിധാനം ഉപയോഗിച്ച് ഇത് വളരെ വൈവിധ്യപൂർണ്ണമാക്കാം അതിനാൽ ഇവിടെ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ഒന്നുമാത്രമേയുള്ളൂ നമ്മൾ ചെയ്യുന്നതെന്താണെന്ന് നിങ്ങൾ സാധാരണയായി ഒരു പ്രൊട്ടക്റ്റർ കണ്ടാൽ നമ്മൾ ഒരു കടലാസിൽ ഡോട്ട് റഫറൻസ് നടത്തുന്നു ഈ രണ്ട് റഫറൻസുകളുമായി പൊരുത്തപ്പെടുന്ന പ്രൊട്ടക്റ്റർ ഡോട്ട് അവിടേക്ക് നീക്കുക ഈ പ്രൊട്ടക്റ്ററിന് മുകളിൽ വരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ടാൻജെന്റ് വരയ്ക്കാൻ ഞാൻ ആഗ്രഹിച്ചുവെന്ന് കരുതുക അതിനുശേഷം ഇതിന് മുകളിൽ ഒരു സ്കെയിൽ സ്ഥാപിക്കുന്നത് അസാധ്യമാണ് കാരണം ഇത് ആർക് ടാൻജെന്റ് ഒരു സ്കെയിൽ അതിനാൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു ലൈനിനായി ആർക്ക് സമ്പർക്കം പുലർത്തുന്നതിന് അതിനാൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് മാത്രമേ ലഭിക്കൂ അതിനാൽ ഒരു ടാൻജെന്റ് വരയ്ക്കുന്നത് ഇതിന് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ അത്തരം പരിമിതികളിൽ നിന്ന് കരകയറാൻ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രധാന സ്കെയിൽ അറ്റാച്ചുചെയ്യുകയാണ് നമ്മൾ ഒരു വെർനിയർ സ്കെയിലും റോട്ടറി ബ്ലേഡും അറ്റാച്ചുചെയ്യുന്നു അതുവഴി നിങ്ങൾക്ക് ഇത് വൈവിധ്യമാർന്ന അപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിക്കാൻ ശ്രമിക്കാം രണ്ട് തരത്തിലുള്ള പ്രൊട്ടക്ടറുകളുണ്ട് അവ നൂതനമാണ് അവ സാധാരണയായി ഉപയോഗിക്കുന്നു ഒന്നിനെ സാർവത്രിക ബെവൽ പ്രൊട്ടക്ടർ എന്ന് വിളിക്കുന്നു മറ്റൊന്ന് ഒപ്റ്റിക്കൽ ബെവൽ പ്രൊട്ടക്റ്റർ കോമ്പിനേഷൻ സെറ്റിനൊപ്പം നമ്മളുടെ കോമ്പിനേഷൻ സെറ്റിൽ നിന്ന് സാർവത്രിക ബെവൽ പ്രൊട്ടക്ടർ വ്യത്യസ്തമാണ് ഇത് വ്യത്യസ്തമാണ് ഇവ രണ്ടും വ്യത്യസ്തമാണ് ദയവായി ആശയക്കുഴപ്പത്തിലാകരുത് യൂണിവേഴ്സൽ ബെവൽ പ്രൊട്ടക്റ്റർ ഇങ്ങനെയാണ് ഇത് ഒരു യൂണിവേഴ്സൽ ബെവൽ പ്രൊട്ടക്റ്റർ പോലെ കാണപ്പെടുന്നത് നിങ്ങൾക്ക് ബ്ലേഡ് ഉണ്ടാകും ഈ ബ്ലേഡിന് ഒരു സ്ലോട്ട് ഉണ്ടാകും ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ടെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അവിടെ ഒരു എൻഡ് മില്ലുണ്ട് അതിനാൽ ഇത് 60 ഡിഗ്രി കോണിലാണ് ഇവിടെ ഇത് മറ്റൊരു കോണിൽ മുറിച്ച് 45 ഡിഗ്രിയാണ് റഫറൻസിംഗ് സ്ഥാപിക്കുന്നതിനും ഇത് ഉപയോഗിക്കാം ഈ ബ്ലേഡിൽ നിങ്ങൾ ഒരു ഫൈൻ അഡ്ജസ്റ്റ്മെൻറ് നോബ് കാണും അവ ഒരു പ്രൊട്ടക്റ്റർ ആണ് അതിലൂടെ സ്ലൈഡുചെയ്യാൻ കഴിയും അതിനാൽ പ്രൊട്ടക്റ്റർ ഒരു ബ്ലേഡ് ക്ലാമ്പർ ഉപയോഗിച്ച് ബ്ലേഡുമായി ബന്ധിപ്പിക്കുന്നു ഈ വരി സമാന്തരമാണെന്നും അല്ലെങ്കിൽ അളക്കുന്ന ഒബ്ജക്റ്റുമായി പൊരുത്തപ്പെടുന്നതാണെന്നും നിങ്ങൾ ഉറപ്പുവരുത്തുന്ന തരത്തിൽ ഇത് ഇതിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്റ്റർ ഉണ്ടാകും അത് ചുവടെയുണ്ട് ഇവിടെ ഒരു മാഗ്നിഫൈയിംഗ് ലെൻസ് ഉണ്ട് കാരണം അളവിൽ വ്യക്തത ലഭിക്കുന്നതിന് ഇത് കാണിക്കുന്നതിന് അറ്റാച്ചുചെയ്തിരിക്കുന്ന ലെൻസ് ഇവിടെ കാണാം ഇവിടെ നിങ്ങൾ ഒരു നല്ല നോബ് കാണുന്നു അത് മുകളിലേക്കും താഴേക്കും ചെറുതായി ഡയൽ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഡാറ്റ ലഭിക്കും ഇവിടെ ഒരു റഫറൻസ് തലം ഉണ്ട് ഈ റഫറൻസ് തലം സംബന്ധിച്ച് നിങ്ങൾക്ക് മുഴുവൻ സ്കെയിലും സ്ഥാപിക്കാൻ കഴിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റ് ഇവിടെ സ്ഥാപിക്കാനും കഴിയും അത് വീണ്ടും ഒരു നിശിത ആംഗിൾ അറ്റാച്ചുമെന്റാണ് ഇത് 90 ഡിഗ്രിയിലാണ് ഇത് 30 ഡിഗ്രിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇവയാണ് ആംഗിളുകൾ വർക്ക് പീസ് സ്ഥാപിക്കുന്നതിനോ വർക്ക് പീസ് ഡയൽ ചെയ്ത് പരന്നതാക്കുന്നതിനോ ഉപയോഗിക്കുന്നു എന്നിട്ട് സ്ഥാപിക്കുക തുടർന്ന് അളവ് അളക്കുന്നതിന് പ്രൊട്ടക്റ്റർ തിരിക്കുക നമുക്ക് ഇത് ഉപയോഗിക്കാം ഒരു റഫറൻസ് ഉപരിതലം ആംഗിൾ അളക്കാൻ കഴിവുള്ള ഉപകരണമാണിത് അടിത്തറയുടെ വൃത്താകൃതിയിലുള്ള ക്രോസ് സെക്ഷനിൽ പ്രൊട്ടക്റ്റർ ഡയൽ സ്ഥാപിച്ചിരിക്കുന്നു പ്രൊട്ടക്റ്റർ ഡയൽ ഓരോ പത്താം ഡിഗ്രി അക്കത്തിലും ഡിഗ്രിയിൽ ഗ്രാജുവേഷൻ ഉണ്ട് വെർനിയർ സ്ലൈഡ് ബ്ലേഡ് ഡയലിൽ ഘടിപ്പിച്ചിരിക്കുന്നു ഇത് അടിസ്ഥാനത്തിലേക്ക് ഒരു കോണിൽ സജ്ജമാക്കിയിരിക്കുന്ന രണ്ട് ദിശകളിലേക്കും ഇത് വ്യാപിപ്പിക്കാം ബ്ലേഡും ഡയലും യൂണിറ്റായി തിരിക്കുന്നു ചെറിയ നർലിംഗ് ഉള്ള ഹെഡ് പിനിയൻ ഉപയോഗിച്ചാണ് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ലഭിക്കുന്നത് അതുവഴി ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നടത്താനും വിശദാംശങ്ങൾ നേടാനും ശ്രമിക്കാം ഇവ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബുകളാണ് അവ അവിടെയുണ്ട് അതിനാൽ ഈ വെർനിയറിന്റെ പൊരുത്തവും പ്രൊട്ടക്റ്റർ കോണുകളും കാണാൻ നമ്മൾ ശ്രമിക്കുന്നു പ്രൊട്ടക്റ്റർ ഡയൽ ലോക്ക് ചെയ്യാം വെർനിയറിലെ സ്പേസിംഗ് നിർമ്മിക്കാം ലീസ്റ്റ് കൌണ്ട് എണ്ണത്തിന്റെ 112 ഡിഗ്രിയോട് യോജിക്കുന്ന തരത്തിൽ അതിനാൽ ഡിഗ്രിയുടെ 112 ശരി നിങ്ങൾ 60 അല്ലെങ്കിൽ 360 എടുക്കുന്നുവെന്ന് കരുതുക നിങ്ങൾക്ക് അതിന്റെ 112 ഭാഗം നേടാം അതിനാൽ ലീസ്റ്റ് കൌണ്ട് കണക്കുകൂട്ടൽ ഒരു പ്രധാന സ്കെയിൽ ഡിവിഷന്റെ മൂല്യം Value of 1 M D Main Scale Division 24 V D 46 M D Vernier Scale Division ഒരു വെർനിയർ ഡിവിഷൻ 23ന്റെ 112 ന് തുല്യമാണെന്ന് വ്യക്തമാണ് ഡയൽ കറങ്ങുമ്പോൾ ഒരു വെർനിയർ ഡിവിഷൻ അഞ്ചാം മിനിറ്റ് മുതൽ 60 ആം മിനിറ്റ് വരെ ആരംഭിക്കുന്നു ക്രമേണ പ്രധാന സ്കെയിൽ ഡിവിഷനുമായി ചേർന്ന് വെർനിയറിന്റെ സീറോത്ത് ഡിവിഷൻ മെയിൻ സ്കെയിൽ ഡിവിഷന് മുകളിലൂടെ 2 ഡിഗ്രി വരെ നീങ്ങുന്നു ലീസ്റ്റ് കൌണ്ട് ഒരു വെർനിയർ ഡിവിഷനും രണ്ട് പ്രധാന സ്കെയിൽ ഡിവിഷനും തമ്മിലുള്ള വ്യത്യാസമാണ് അത് 112 ° അല്ലെങ്കിൽ 5 'ആണ് Least Count 2 Main Scale Divisions M D - 1 Vernier Scale Division V D Least Count 112×1° Least Count 11260 Least Count 5' ചിലപ്പോൾ വെർനിയർ ഉപയോഗിച്ച് അളക്കേണ്ട ദിശ വായിക്കുന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു മനസ്സിലാക്കുന്നതിൽ നമ്മൾ ലളിതമായ ഒരു നിയമം പിന്തുടരുന്നു നമ്മൾ ഓർമ്മിക്കേണ്ട നിയമം നിങ്ങൾ ഡയൽ സ്കെയിൽ വായിച്ച അതേ ദിശയിൽ എല്ലായ്പ്പോഴും പൂജ്യത്തിൽ നിന്ന് വെർനിയർ അളക്കുക ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ലളിതമായ ഒരു നിയമം നിങ്ങൾ അളന്ന അതേ ദിശയിൽ ഇത് പൂജ്യമാണ് അതിനാൽ നിങ്ങൾ ഇത് പിന്തുടരുകയാണെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാകില്ല അത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ വിശദാംശങ്ങൾ നേടാൻ ശ്രമിക്കുക കോണുകളും അവയുടെ അനുബന്ധങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഒരു വർക്ക് പീസ് ഉണ്ട് അതിനാൽ ഇവിടെ അടിസ്ഥാനമുണ്ട് നമ്മൾ സംസാരിച്ചതെന്തും ഇവിടെ പ്രൊട്ടക്റ്റർ ഉണ്ട് ഇവിടെ നോബ് ഉണ്ട് ഇത് ഇവിടെ സ്ലൈഡുചെയ്യാൻ ഉപയോഗിക്കുന്നു നമുക്ക് ഈ ആംഗിൾ കണ്ടെത്തണമെങ്കിൽ ഇത് α അതിനാൽ α β 180 ° നിങ്ങൾക്ക് α മാത്രമായി കണ്ടെത്തണമെങ്കിൽ അത് ഇതായിരിക്കും α 180 ° β നിങ്ങൾക്ക് α ആംഗിൾ ലഭിക്കും പരന്ന പ്രതലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ആംഗിൾ ലഭിക്കുന്നു ഈ കോണിനെ ബെവൽ പ്രൊട്ടക്റ്റർ ഉപയോഗിച്ച് അളക്കാൻ കഴിയും ശരി ആംഗിൾ നേരിട്ട് വായിക്കുന്നത് ബ്ലേഡിൽ നിന്ന് അടിസ്ഥാന കൌണ്ടർ ക്ലോക്ക് തിരിച്ചുള്ളവയാണ് നമ്മൾ അത് ചെയ്യുന്നു മുഴുവൻ ഭാഗത്തിന്റെയും കോൺ ക്വാഡ്രന്റ് 1 അല്ലെങ്കിൽ ക്വാഡ്രന്റ് 3 ൽ അളക്കുകയാണെങ്കിൽ ആംഗിൾ നേരിട്ട് അളക്കാൻ കഴിയും അത് മറ്റൊരു വഴിയാണെങ്കിൽ ഡാറ്റ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് വർക്ക് പീസുകളുടെ കോണുകൾ ക്വാഡ്രന്റ് 2 ക്വാഡ്രന്റ് 4 എന്നിവയിൽ അളക്കുന്നുണ്ടെങ്കിൽ അതിനാൽ ക്വാഡ്രന്റുകൾ 1 2 3 4 എന്നിവയാണെന്ന് കണ്ടാൽ ശരി ഇവ നാല് ക്വാഡ്രന്റുകളാണ് ഒരു വർക്ക് പീസിന്റെകോൺ 1 അല്ലെങ്കിൽ 3 ൽ അളക്കുന്നുണ്ടെങ്കിൽ ആംഗിൾ എളുപ്പത്തിൽ സ്കെയിലിൽ നിന്ന് നേരിട്ട് വായിക്കാൻ കഴിയും ജോലിയുടെ ഭാഗത്തിന്റെ ആംഗിൾ ക്വാഡ്രന്റ് 2 അല്ലെങ്കിൽ 4 ൽ അളക്കുകയാണെങ്കിൽ യഥാർത്ഥ കോണാണ് അവയുടെ അനുബന്ധങ്ങൾ നൽകുന്നത് ഇവിടെയും ആംഗിൾ നേരിട്ട് രണ്ട് ക്വാഡ്രന്റുകളിൽ മാത്രമേ വായിക്കാൻ കഴിയൂ അതായത് രണ്ടാമത്തെയും നാലാമത്തെയും ശരി ഈ കോണുകൾ ബ്ലേഡ് മുതൽ ബേസ് വരെയുള്ള ഘടികാരദിശയിലും നിശിതകോണിലും രൂപം കൊള്ളുന്നു സപ്ലിമെന്റ് 1 3 ക്വാഡ്രന്റുകൾ വർക്ക് ഭാഗത്തിന്റെ പൂർണ്ണ കോണായിരിക്കണം നമ്മൾ നീങ്ങുമ്പോൾ ഞാൻ ആംഗിൾ വരയ്ക്കാൻ ശ്രമിക്കും നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു സ്കെയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ആംഗിൾ ഉണ്ടെങ്കിൽ ശരി അതിനാൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഇത് സപ്ലിമെന്റാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇതും അനുബന്ധമാണ് ഇതാണ് ആംഗിൾ ഇവിടെയും ആംഗിൾ ഉണ്ട് നമ്മൾ നേരിട്ട് അളക്കുന്നു ശരി ഇത് ഒരു ബ്ലേഡിനുള്ളതാണ് അത് ബ്ലേഡിൽ കറങ്ങുന്നു അത് ഘടികാരദിശയിൽ കറങ്ങുന്നു ആന്റി ഘടികാരദിശയിൽ ബ്ലേഡ് കറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു സ്കെയിൽ ഉണ്ടാകും അതിനാൽ ഇത് അനുബന്ധമാണ് ഇതാണ് നമ്മൾ അളക്കുന്ന ആംഗിൾ ഇത് നമ്മൾ അളക്കുന്ന കോണാണ് ഇത് ഒരു ബ്ലേഡിനുള്ളതാണ് അത് ഘടികാരദിശയിൽ തിരിയുന്നു ഘടികാരദിശയിൽ ബ്ലേഡ് കറങ്ങുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് സപ്ലിമെന്റ് വിശദാംശങ്ങൾ ലഭിക്കുന്നത് അതിനാൽ 1 3 ക്വാഡ്രന്റുകളിൽ ഈ ക്വാഡ്രന്റുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വർക്ക് പീസിനായി ഒബ്റ്യുസ് ആംഗിൾ ഉപയോഗിക്കുക യൂണിവേഴ്സൽ ബെവൽ പ്രൊട്ടക്റ്ററിന്റെ ലളിതമായ വിപുലീകരണമാണ് ഒപ്റ്റിക്കൽ പ്രൊട്ടക്റ്റർ ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത സ്കെയിൽ എളുപ്പത്തിൽ അളക്കാൻ സഹായിക്കുന്നതിനായി ഐപീസ് രൂപത്തിൽ നമ്മൾ ഒരു ലെൻസ് ഉപയോഗിക്കുന്നു ഒരു ബ്ലേഡ് ക്ലാമ്പർ വഴി ബ്ലേഡ് ഒരു ഡയലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വർക്കിംഗ് എഡ്ജ് ഉണ്ട് ഒപ്പം ആക്യൂട്ട് ആംഗിൾ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയും ഇത് ഒരു അടിസ്ഥാനമാണ് ഇത് ഒരു ക്ലാമ്പാണ് ഇവിടെ നിങ്ങൾക്ക് അളവ് കാണാൻ ഒരു ചെറിയ ഐപീസ് ഉണ്ട് വർക്ക് ബ്ലെഡ്മായി സമ്പർക്കം പുലർത്തുന്ന ഒരു ബ്ലേഡ് ഇതാ എന്നിട്ട് ഇതാണ് ബ്ലേഡ് ക്ലാമ്പിംഗ് ഉപകരണം നമ്മൾ ഉപയോഗിക്കുന്നത് ദൃശ്യമാകുന്ന ഒപ്റ്റിക്കൽ കാര്യം ഒഴികെ ഇത് ഒരു ബെവൽ പ്രൊട്ടക്റ്ററുമായി ഏതാണ്ട് സമാനമാണ് വെർനിയർ പ്രൊട്ടക്റ്ററിൽ വെർനിയർ സ്കെയിലിന്റെ മുകളിലെ കാഴ്ചയിൽ ഐപീസ് ഘടിപ്പിച്ചിരിക്കുന്നു ഇത് സ്റ്റേഷണറി ഡയൽ സ്കെയിലിനേക്കാൾ ഒരൊറ്റ യൂണിറ്റായി നീങ്ങുന്നു അതിനാൽ ഐപീസ് അത് വലുതാക്കിയ രീതിയിൽ നൽകുന്നു വർക്ക് പീസിലെ അക്യൂട്ട് ആംഗിൾ സുഗമമാക്കുന്നതിന് അക്യൂട്ട് ആംഗിൾ ഘടിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അളക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും രണ്ടാമത്തെ കാര്യം അളവ് ലോക്ക് ചെയ്യുന്നതിന് ഒരു ക്ലാമ്പ് നൽകിയിട്ടുണ്ട് ഒരു ക്ലാമ്പ് ഉണ്ട് അത് കറങ്ങുന്നത് തടയുന്നു അതിനാൽ നിങ്ങൾ കണ്ണിലേക്ക് നോക്കുന്നു തുടർന്ന് അളവ് എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇവിടെ ഒരു വെർനിയർ അളവ് ഉണ്ടാകും അടുത്ത ഉപകരണം സൈൻ ബാർ ആണ് സ്ലിപ്പ് ഗേജുകൾക്കൊപ്പം ഉപയോഗിക്കുന്ന കൃത്യമായ ആംഗിൾ അളക്കൽ ഉപകരണമാണ് സൈൻ ബാർ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു സ്ലിപ്പ് ഗേജ് ആണ് നിങ്ങൾ റോളറിന്റെ ഒരു അറ്റത്ത് സ്ലിപ്പ് ഗേജ് ഇടുക നിങ്ങൾ സ്ലിപ്പ് ഗേജ് ഇടുന്ന റോളറിന്റെ ഒരു അറ്റത്ത് അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ അളക്കുന്നത് ഉയരവുമാണ് ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഒരു പരന്ന പ്രതലമാണ് ഇപ്പോൾ നിങ്ങൾ ഇത് ഒരു ചെരിവിൽ വയ്ക്കുക തുടർന്ന് വർക്ക് പീസ് ഇവിടെ ഇടുക 0 ഏത് വഴിയാണെന്ന് കണ്ടെത്താൻ ഡയൽ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്കുള്ളത് ഉയരം എന്താണെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം ഉയരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇത് പരിവർത്തനം ചെയ്യാനും ആംഗിൾ എന്താണെന്ന് കണ്ടെത്താനും കഴിയും ശരി സ്ലിപ്പ് ഗേജുകൾക്കൊപ്പം ഉപയോഗിക്കുന്ന കൃത്യമായ ആംഗിൾ അളക്കുന്ന ഉപകരണമാണിത് നിങ്ങൾ സ്ലിപ്പ് ഗേജ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ ഉപകരണം വലിയ പ്രയോജനമല്ല ഒരു സൈൻ തത്വത്തെ അടിസ്ഥാനമാക്കി കോണുകൾ അളക്കാൻ ഒരു സൈൻ ബാർ ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് ഫ്ലാറ്റ് ഉണ്ടാകും ഇത് ഒരു ടോപ്പ് ഫ്ലാറ്റ് ഉപരിതലമാണ് നിങ്ങൾക്ക് രണ്ട് റോളറുകളുണ്ട് ഈ റോളർ അളവുകൾ d ആയി നൽകിയിരിക്കുന്നു പരന്ന പ്രതലത്തിന്റെ മുകളിലേക്കുള്ള തലയിലേക്കുള്ള റോളറിന്റെ മധ്യഭാഗം h ആണ് രണ്ട് റോളറുകൾക്കിടയിൽ ദൂരം L രണ്ട് റോളറുകൾ തമ്മിലുള്ള ഉയരത്തിലെ വ്യത്യാസം റോളറിന്റെ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരം കൊണ്ട് ഗുണിച്ച കോണിന്റെ സൈനിന് തുല്യമാകുമ്പോൾ ആവശ്യമായ ആംഗിൾ ലഭിക്കും അതിനാൽ ഒരു സൈൻ ബാറിന്റെ മുകളിലെ ഉപരിതലത്തിനും ഡാറ്റം ആയ ഉപരിതല പ്ലേറ്റിനുമിടയിൽ രൂപംകൊണ്ട ആംഗിൾ നൽകുന്നത് sin hL Where h height difference between the rollers L distance between the rollers നമ്മൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് ഫ്ലാറ്റ് ഉണ്ടെന്ന് പറയാൻ നമ്മൾ ശ്രമിക്കുന്നു അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ഒബ്ജക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഒരു റോളർ ഉണ്ട് മറ്റൊരു വഴിയിൽ നിങ്ങൾക്ക് ഇത് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു റോളർ കൂടി ഉണ്ട് ശരി ഈ ദൂരം L ആണ് ഇത് ഒരു സ്ലിപ്പ് ഗേജിൽ വിശ്രമിക്കുന്നു ഇത് ഒരു ഉയരം h ന്റെ സ്ലിപ്പ് ഗേജാണ് ഉയരം h വലത് ഈ ആംഗിൾ കണ്ടെത്തണമെങ്കിൽ ഞാൻ അതിനെ A എന്ന് വിളിക്കുന്നു അതിനാൽ sinA എന്നത് h ന് തുല്യമാണ് ഇവിടെ h എന്നത് മറ്റൊന്നുമല്ല റോളറുകൾ തമ്മിലുള്ള ഉയരത്തിന്റെ വ്യത്യാസo റോളറുകൾ തമ്മിലുള്ള ദൂരം L ആണ് ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ആംഗിളിന്റെ സൈൻ എന്ന് പറയുന്നു ശരി മുമ്പത്തെ സ്ലൈഡിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഇത് സൈൻ തത്വത്തിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ഇതാണ് sin അതിനാൽ hL ന് തുല്യമായ sin അതിനാൽ Lsin എല്ലായ്പ്പോഴും h ന് തുല്യമാണ് ഇപ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് നിങ്ങൾക്കറിയാമോ ഇത് ഫ്ലാറ്റ് പ്ലേറ്റ് ആണെന്ന് ഇത് പരന്നതാണ് അതിനാൽ ഇതുപയോഗിച്ച് നമുക്ക് h കണ്ടുപിടിക്കാൻ ശ്രമിക്കാം ഉയരം L അല്ലാതെ മറ്റൊന്നുമല്ല h L × sin Where h height difference between the rollers L distance between the rollers ഉയരം h ലേക്ക് സൈൻ ഗേജ് നിർമ്മിച്ച് സ്ലിപ്പ് ഗേജിന് മുകളിൽ ഒരു റോളർ ഉപയോഗിച്ച് ഒരു ഉപരിതല പ്ലേറ്റിൽ സൈൻ ബാർ സ്ഥാപിക്കുന്നതിലൂടെ മുകളിലെ ഉപരിതലത്തെ ഉപരിതല പ്ലേറ്റുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള കോണിലേക്ക് സജ്ജമാക്കാൻ കഴിയും നമ്മൾ പറയാൻ ശ്രമിക്കുകയാണ് ഇത് 1 2 3 ആയിരിക്കാം കൂടാതെ 4 ആയിരിക്കാം നിങ്ങൾക്ക് ഇവിടെ ഒരു റോളർ കൂടി ഉണ്ട് അതിനാൽ ഇത് 100 മില്ലിമീറ്ററാണെന്ന് കരുതുക അത് ഒരു ആർക്ക് പിന്തുടരുന്നു ശരി അതിനാൽ ഇത് 60 ഡിഗ്രിയാണ് ഇത് 45 ഡിഗ്രി ക്ഷമിക്കണം ഇത് 30 ഡിഗ്രിയാണ് ഇത് 60 ഡിഗ്രിയാണ് നിങ്ങൾ നോക്കിയാൽ ഉയരം ഇത് 50 ആയിരിക്കും അതേ കാര്യം 70 71 ആയിരിക്കും നിങ്ങൾ ഈ ഡ്രോപ്പ് ഈ ഉയരം എടുക്കാൻ ശ്രമിച്ചാൽ ഇത് 86 6 മില്ലിമീറ്ററായിരിക്കും വ്യത്യസ്ത ഉയരങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഉയരം h ന്റെ ഒരു സ്ലിപ്പ് ഗേജ് നിർമ്മിച്ച് ഉപരിതല പ്ലേറ്റിൽ ഒരു റോളർ ഉപയോഗിച്ച് സൈൻ ബാർ സ്ലിപ്പ് ഗേജിന് മുകളിൽ സ്ഥാപിച്ച് നിർമ്മിക്കുമ്പോൾ മുകളിലെ ഉപരിതലം ആവശ്യമുള്ള കോണിലേക്ക് സജ്ജമാക്കാൻ കഴിയും ഉപരിതല ഫലകവുമായി ബന്ധപ്പെട്ട കോണുകളാണിത് അറിയപ്പെടുന്ന നീളമുള്ളതിനാൽ സിലിണ്ടറുകൾക്കിടയിൽ അളവുകൾ ആവശ്യമില്ല അളക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് അറിയപ്പെടുന്ന നീളമാണ് ഇതാണ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത് 100 മില്ലിമീറ്റർ അതിനാൽ ദൂരം 100 മില്ലിമീറ്ററാണ് നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു വ്യത്യസ്ത അളവുകൾക്കായി നിങ്ങൾക്ക് ലഭിക്കുന്ന വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ കാണുന്നു അപ്പോൾ സൈൻ ബാറിന്റെ പ്രയോജനം എന്താണ് സൈൻ ബാർ നേട്ടം വളരെ കൃത്യവും കൃത്യവുമാണ് രൂപകൽപ്പനയും നിർമ്മാണവും വളരെ ലളിതമാണ് ലഭ്യത വളരെ ഉയർന്നതാണ് പോരായ്മ ഉയർന്ന കോണിൽ കൃത്യതയില്ല ഇത് 60 അല്ലെങ്കിൽ 80 ൽ കൂടുതൽ വരുമ്പോൾ കൈകാര്യം ചെയ്യുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് അതിനാൽ ഒരു സ്ലിപ്പ് ഗേജിന്റെ സ്ഥാനം സ്ഥാനങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നത് ശ്രമകരമാണ് ചെറിയ എറർ ഒരു വലിയ ആംഗുലാർ എറർ കാരണമാകും ഇപ്പോൾ ഈ ദിശയിൽ ഈ ഒരു സംഖ്യാ ചോദ്യം പരിഹരിക്കാൻ ശ്രമിക്കാം അതായത് സൈൻ ബാറിൽ സംഖ്യാ ചോദ്യം പരിഹരിക്കാൻ ശ്രമിക്കാം ഒരു സൈൻ ബാറിന്റെ നീളം 100 മില്ലിമീറ്ററും ആംഗിൾ 14 ഡിഗ്രിയുമാണെങ്കിൽ സെറ്റ് M25 സ്ലിപ്പ് ഉപയോഗിച്ച് സ്ലിപ്പ് ഗേജിന്റെ ഉയരവും സ്ലിപ്പുകളുടെ വലുപ്പവും നിർണ്ണയിക്കുക നമ്മൾ അത് പഠിച്ചു അതിനാൽ നൽകിയ ഡാറ്റ 14 ഡിഗ്രിക്ക് തുല്യമാണ് തുടർന്ന് എൽ റോളറുകൾക്കിടയിലുള്ള നീളം 100 മില്ലിമീറ്ററാണ് അതിനാൽ അവർ എന്താണ് ചോദിക്കുന്നത് എന്താണ് h എന്ന് കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നു 19 mm ഫോർമുല എന്താണ് sin θ hL അതിനാൽ h എന്നത് 100 sin 14 ഡിഗ്രിയല്ലാതെ മറ്റൊന്നുമല്ലഇത് 100 മുതൽ 0 241 വരെ അത്തരത്തിലുള്ള ഒന്നല്ല ഇത് 24 1 19 ആണ് 19 മില്ലിമീറ്റർ ഇത് h ആയിരിക്കും ശരി സൈനിന്റെ തത്ത്വങ്ങൾ ഉപയോഗിച്ച് ഇത് നേരെയുള്ള ഫോർമുലയാണ് ഈ സൈൻ ബാർ ദൈർഘ്യം പരിഹരിച്ചിരിക്കുന്നു അതിനാൽ ഈ L ഉം ഈ h ഉം മാത്രമാണ് ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് വരുമ്പോൾ മാറുന്നത് കേന്ദ്രങ്ങൾക്കിടയിൽ നടക്കുന്ന കോണാകൃതിയിലുള്ള വർക്ക് പീസുകളുടെ ആംഗിൾ അളക്കുന്നതിനുള്ള മാർഗ്ഗം ആയി ഒരു സൈൻ സെന്റർ നൽകുന്നു ഇത് സൈൻ സെന്റർ ആണ് രണ്ട് കേന്ദ്രങ്ങളുണ്ട് രണ്ട് ലൈവ് കേന്ദ്രങ്ങളും രണ്ട് നിർജ്ജീവ കേന്ദ്രങ്ങളും കേന്ദ്രങ്ങൾക്കിടയിൽ നടക്കുന്ന കോണാകൃതിയിലുള്ള വർക്ക് പീസ് അളക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം റോളറുകളിലൊന്ന് അതിന്റെ അക്ഷത്തിൽ പിവറ്റ് ചെയ്യുന്നു അതുവഴി മറ്റ് റോളർ ഉയർത്തി സൈൻ ബാർ ഒരു കോണിൽ സജ്ജമാക്കാൻ അനുവദിക്കുന്നു ഈ റോളർ നിങ്ങൾക്ക് അത് ഉയർത്താൻ കഴിയും തുടർന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഈ സൈൻ സെന്ററിന്റെ അടിത്തറയിൽ ഉയർന്ന അളവിലുള്ള പരന്നതയുണ്ട് സ്ലിപ്പ് ഗേജ് പൊതിഞ്ഞ് അതിന്റെ സെറ്റിൽ സൈൻ ബാർ ആവശ്യമായ കോണിൽ സ്ഥാപിക്കുന്നു കോണാകൃതിയിലുള്ള വർക്ക് പീസിനെതിരെ സ്റ്റാൻഡിനോട് ചേർത്ത ഒരു ഡയൽ ഗേജ് സജ്ജീകരിച്ചിരിക്കുന്നു വർക്ക് ബാർ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നീക്കുമ്പോൾ ഡയൽ ഗേജ് ഒരു വ്യതിയാനവും രേഖപ്പെടുത്താത്തവിധം ഒരു കോണിൽ സൈൻ ബാർ സജ്ജീകരിച്ചിരിക്കുന്നു ലളിതമായ നിയമം വീണ്ടും പ്രയോഗിച്ചുകൊണ്ട് കോൺ നിർണ്ണയിക്കുന്നു നമ്മൾ പറയാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് ഒരു സൈൻ ബാർ ഉണ്ടാകും ഇവിടെ നിങ്ങൾക്ക് h ഉണ്ടാകും ഇവ സ്ലിപ്പ് ഗേജുകളല്ലാതെ മറ്റൊന്നുമല്ല ഇവിടെ നിങ്ങൾക്ക് ഇത് ലഭിക്കും ശരി അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇത് ഒരു കോണാകൃതിയാണ് ഇത് കേന്ദ്രങ്ങൾക്കിടയിലാണ് ഇത് ഒരു കോണാകൃതിയിലുള്ള വർക്ക് പീസാണ് നിങ്ങൾ തിരികെ പോയാൽ സൈൻ സെന്ററിന്റെ അടിത്തറയിൽ ഉയർന്ന അളവിലുള്ള പരന്നത കാണാം ഒരു നിലപാടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഡയൽ ഗേജ് കോണാകൃതിയിലുള്ള വർക്ക് പീസിനെതിരെ സജ്ജീകരിച്ചിരിക്കുന്നു നിങ്ങൾ ഇവിടെ ഒരു ഡയൽ സജ്ജീകരിക്കും വർക്ക് ബാർ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നീക്കുമ്പോൾ ഡയൽ ഗേജ് ഒരു വ്യതിയാനവും രേഖപ്പെടുത്താത്തവിധം സൈൻ ബാർ ഒരു കോണിലേക്ക് സജ്ജമാക്കിയിരിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് സൈൻ റൂൾ പ്രയോഗിച്ചുകൊണ്ട് ആംഗിൾ നിർണ്ണയിക്കപ്പെടുന്നു എന്നതാണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഒരു ഡയൽ ഗേജ് ഇവിടേക്ക് നീക്കുക തുടർന്ന് ഈ ഉയരം ആംഗിൾ എന്താണെന്ന് മനസിലാക്കാൻ ശ്രമിക്കുക അടുത്തത് ആംഗിൾ മെഷർമെന്റ് ആണ് ഇവയെ ഫീലർ ഗേജുകൾ എന്ന് വിളിക്കുന്നു ഉയർന്ന ഗ്രേഡ് വിയർ പ്രതിരോധശേഷിയുള്ള ഉരുക്ക് ഉപയോഗിച്ച് നിർമ്മിച്ച ആംഗിൾ മെഷർമെന്റ് സ്ലിപ്പ് ഗേജുകളുടെ സമാന തത്വത്തിൽ പ്രവർത്തിക്കുന്നു സ്ലിപ്പ് ഗേജുകൾ പോലുള്ള അതേ ആശയം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആംഗിൾ അളക്കാൻ ശ്രമിക്കാം നിങ്ങൾ ചേർക്കുന്നത് തുടരുക തുടർന്ന് വർക്ക് പീസ് അനുസരിച്ച് അവ ഏത് കോണാണെന്ന് മനസിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇതും ഉപയോഗിക്കാം തുടർന്ന് ആംഗിൾ അളക്കാൻ ഈ കോമ്പിനേഷൻ ഉപയോഗിക്കുക ആംഗിൾ ഗേജ് ആവശ്യമുള്ള ഒരു ആംഗിൾ കെട്ടിപ്പടുക്കുന്നതിന് ഇത് ഒരുമിച്ച് ചേർക്കാം രണ്ട് വലിയ കോണുകൾ തമ്മിലുള്ള വ്യത്യാസമായി ഒരു ചെറിയ കോണായി അവ കുറയ്ക്കാം അവർ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാക്കാം ശരി എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആകാം ഇത് പൂർണമായി ഇപ്പോൾ 35 ഡിഗ്രി ആയിരിക്കും അതിനാൽ ഇതൊരു 30 ഡിഗ്രി ബ്ലോക്കാണ് ഇത് 5 ഡിഗ്രി ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു സ്ലിപ്പ് ഗേജ് ആണ് നമ്മൾ സംസാരിക്കുന്നതെന്തും ഇത് നിങ്ങൾക്ക് ലഭിക്കാൻ 5 ഡിഗ്രി കൂട്ടിച്ചേർക്കലാണ് ആഗ്രഹിക്കുന്നതെന്ന് കരുതുക മറ്റൊരു വഴി നിങ്ങൾക്ക് 20 ആകാം എന്നതാണ് ഒരു ഉദാഹരണം നൽകിയാൽ ഇത് വീണ്ടും 30 ഡിഗ്രി ബ്ലോക്കാണ് തുടർന്ന് നിങ്ങൾ ചെയ്യുന്നത് വിപരീത ദിശയിൽ പോകാൻ ശ്രമിക്കുകയാണ് തുടർന്ന് നിങ്ങൾ ഇവിടെ ശ്രമിക്കുക ആംഗിൾ എന്തായിരിക്കും ഇവിടെ 25 ഡിഗ്രി മാത്രമാണ് ഇതും 5 ഡിഗ്രി ബ്ലോക്ക് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നു ഇത് കട്ടിയുള്ളതാണ് ഇവിടെ ഇത് നേർത്തതാണ് അതിനാൽ ഇത് സങ്കലനമാണ് ഇത് കുറയ്ക്കലാണ് നിങ്ങൾക്ക് ബ്ലോക്കുകൾ ചേർക്കാൻ കഴിയും നിങ്ങൾക്ക് കുറയ്ക്കാം അടിസ്ഥാന കോണിൽ നിന്ന് ബ്ലോക്ക് ആംഗിൾ ചെയ്യുക നിങ്ങൾക്ക് അളവെടുപ്പിനായി വ്യത്യസ്ത കോണുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കാം വീണ്ടും ഇവിടെ നമ്മൾ റിംഗിംഗ് എന്ന ആശയം ഉപയോഗിച്ച് ആംഗിൾ രൂപപ്പെടുത്തുന്നു ആദ്യം കണ്ടപ്പോൾ ബ്ലോക്കുകളുള്ള ലക്ഷക്കണക്കിന് കോണുകൾ അളക്കുന്നത് അസാധ്യമാണ് പക്ഷേ ഈ ബ്ലോക്കുകളുടെ കൂട്ടിച്ചേർക്കലും കുറയ്ക്കലും വഴി ഇത് സാധ്യമാകാം സ്ലിപ്പ് ഗേജുകൾ പോലെ ആംഗിൾ ബ്ലോക്കുകൾ വിവിധ കോമ്പിനേഷനുകളിൽ ഒരുമിച്ച് ചേർക്കാം ഓരോ ആംഗിൾ ബ്ലോക്കിന്റെയും ഒരറ്റം പ്ലസ് എന്ന് അടയാളപ്പെടുത്തുന്നു അതേസമയം വിപരീതം മൈനസ് എന്ന് അടയാളപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഒരു ടേപ്പർ ഉണ്ടാകും ശരി അവ പ്ലസ് അല്ലെങ്കിൽ മൈനസ് സ്ഥാനത്ത് സംയോജിപ്പിക്കാവുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് പ്ലസും മൈനസും ഉണ്ടാകാം നിങ്ങൾക്ക് മൈനസും പ്ലസും ഉണ്ടായിരിക്കാം ഇത് കുറയ്ക്കുകയും ആംഗിൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു രണ്ട് ഇടുങ്ങിയ അറ്റങ്ങൾ ഒരുമിച്ച് വ്യക്തിഗത കോണുകളുടെ ഒരു കൂട്ടിച്ചേർക്കൽ നൽകുന്നു ഇടുങ്ങിയ അവസാനം പരസ്പരം എതിർവശത്തായി കുറയ്ക്കൽ ആംഗിൾ നൽകുന്നു അതിനാൽ നമ്മൾ ഇവിടെ കണ്ടത് ഇതാണ് ഇത് സങ്കലനമാകാം കുറയ്ക്കാം നിങ്ങളുടെ ഘട്ടങ്ങളിൽ 0 മുതൽ 90 ഡിഗ്രി 59 മിനിറ്റ് 59 സെക്കൻഡ് നൽകിയാൽ അളവുകൾ സെക്കൻഡിൽ ലഭിക്കും ഇവിടെ നമ്മൾ ചെയ്യുന്നത് 45 ഡിഗ്രി എടുക്കാൻ ശ്രമിക്കുകയാണ് ശരിയാണ് ഇത് പോസിറ്റീവ് ആണെന്ന് നമുക്ക് എടുക്കാം തുടർന്ന് അമ്പടയാളം ഇതിലേക്കാണ് ഇത് നെഗറ്റീവ് ആണ് 45 മൈനസ് 3 42 ലേക്ക് നയിക്കുന്നു എന്നിട്ട് ഇവിടെ നമ്മൾ 30 ഡിഗ്രി 30 മിനിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു തുടർന്ന് നമ്മൾ 5 മിനിറ്റും എടുക്കുന്നു രണ്ടും ഒരേ ദിശയിലാണ് നമുക്ക് 35 ലഭിക്കുന്നു തുടർന്ന് 20 മിനിറ്റും എടുക്കും ഇത് 42 ഡിഗ്രി 35 മിനിറ്റ് 20 സെക്കൻഡ് എന്നിവയാണ് വ്യത്യസ്ത കോണുകളുടെ സംയോജനത്തിലൂടെ ഇത് വികസിപ്പിക്കാൻ കഴിയും ദിശയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ ചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു ഇതിനെ ആംഗിൾ ഗേജുകളുടെ സംയോജനം എന്ന് വിളിക്കുന്നത് രണ്ട് ഉപരിതലങ്ങൾ തമ്മിലുള്ള കോണിന്റെ ദ്രുത അളവാണ് ഇത് ഒരു ഘടകം അതിന്റെ ഓഫ് ആംഗിൾ ടോളറൻസിനുള്ളിലാണോയെന്ന് പരിശോധിക്കുക എന്നതാണ് ആംഗിൾ ഗേജിന്റെ പതിവ് ഉപയോഗം കൃത്യമായ സ്ക്വയറുകൾ ഉപയോഗിച്ച് 90 ഡിഗ്രിയിൽ കൂടുതലുള്ള ഒരു കോണിന്റെ അളവെടുപ്പിനായി നമ്മൾ ഉപയോഗിക്കുന്ന എൽ സ്ക്വയർ പോലുള്ളവ അതാണ് കോണുകൾക്കൊപ്പം ഇതാണ് നമ്മൾ ഇവിടെ ഒരു കോമ്പിനേഷൻ കാണിച്ചത് വിവിധ കോണുകൾ സൃഷ്ടിക്കുന്നതിന് ഇതിന്റെ സംയോജനത്തിനൊപ്പം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ഈ കോണുകൾ സൈൻ ബാറിനേക്കാൾ കൃത്യമാണ് സൈൻ ബാറിൽ ട്രിഗ്ണോമെറ്റ്റി ഇക്വഷൻസ് ഉൾപ്പെടുന്നു അതിനാൽ ഇവിടെ ഇത് കാണിക്കുന്നില്ല സൈൻ ബാറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആംഗിൾ ഗേജ് ഉപയോഗിച്ച് കോണുകൾ ക്രമീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കുറവാണ് നമുക്ക് ഇത് ഒരു ചോദ്യമായി എടുക്കാം ഇനിപ്പറയുന്ന സ്റ്റാൻഡേർഡ് ആംഗിൾ ഗേജുകളുടെ സഹായത്തോടെ 39 ° 9' 15 " ഒരു ആംഗിൾ അളക്കണം അതിനാൽ ഇത് 1 ° 3 ° 9 ° 27 ° 41 is ആണ് നമ്മൾ 33 ഉത്പാദിപ്പിക്കണം സാധ്യതകൾ എന്തൊക്കെയാണ് 33 ° 27 ° പ്ലസ് 3 ° പ്ലസ് 1 കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയും ഇത് പ്ലസ് 3 ° പ്ലസ് 1 ° അല്ല ഇത് 33 to ലേക്ക് വരുന്നില്ല അടുത്ത കോമ്പിനേഷൻ 33 ആണ് നമുക്ക് 27 ° പ്ലസ് 9 ആയി എടുക്കാൻ ശ്രമിക്കാം 27 ° പ്ലസ് 9 36 ആണ് 36 ° മൈനസ് 3 ഒരു സാധ്യതയാണ് 27 ° പ്ലസ് 9 ° മൈനസ് 6 നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യതയാണ് നമുക്ക് അത് ചെയ്യാം നമ്മൾ ചെയ്തത് ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് എടുക്കുക എന്നതാണ് ആദ്യം നമ്മൾ 27 ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇത് 27 ആണ് നമുക്ക് ഇത് ഉണ്ടാക്കാം അടുത്തത് 9 is നിങ്ങൾ 9 ഉണ്ടാക്കുന്നു വീണ്ടും ഈ ദിശയിൽ അതിനാൽ നമ്മൾ മൈനസ് 3 സജ്ജമാക്കി അതിനാൽ നമ്മൾ ഇവിടെ 3 ഇട്ടു അതിനാൽ 3° ഇത് മൈനസ് ആണ് അതിനാൽ നമ്മൾ ഇത് 33ആയി നേടി എന്നതാണ് 33 ° ≠ 27 ° 3 ° 1 ° 33 ° 27 ° 9 ° 3 ° 9 ' 9' 15 " 18" 3 " ഇപ്പോൾ അടുത്ത കാര്യം 9' നിങ്ങൾക്ക് വേണം നേരിട്ട് നിങ്ങൾക്ക് 9 ഉണ്ട് ഞാൻ ഇവിടെ 9' ചേർക്കുന്നു ഞാൻ ഈ ദിശയിൽ 9' ചേർക്കുന്നു അതിനാൽ നേരിട്ട് 9' ലഭിച്ചു അതിനാൽ പ്രശ്നമില്ല എന്നിട്ട് എനിക്ക് 15" വേണം എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് 18" മൈനസ് 3 "ആയി സൃഷ്ടിക്കാൻ കഴിയും എനിക്ക് അത് പൂർത്തിയാക്കാൻ കഴിയും ഞാൻ ഒരേ ദിശയിൽ 18 "ചേർക്കും തുടർന്ന് ഈ ദിശയിൽ 3" കുറയ്ക്കും ഇപ്പോൾ എനിക്ക് ലഭിച്ചത് 33 ° 9' 15 " കോണാണ് ഇത് കൂട്ടിച്ചേർക്കലാണ് ഇത് കുറയ്ക്കലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ നേടാൻ ശ്രമിക്കുന്നു ഇങ്ങനെയാണ് ഉത്തരം ലഭിക്കുന്നത് ശരി തുടർന്ന് നാം സ്പിരിറ്റ് ലെവലിലേക്ക് നീങ്ങുന്നു ഒരു ബബിൾ അടിസ്ഥാന ഉപകരണമാണ് സ്പിരിറ്റ് ലെവൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ബബിൾ എല്ലായ്പ്പോഴും ചലിക്കുന്ന ഒരു ആംഗിൾ അളക്കുന്ന ഉപകരണമാണ് ഇത് ഇതുപോലെയാണ് നിങ്ങൾക്ക് ഒരു ബബിൾ ഉണ്ട് ശരി അതിനാൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻസ് ഉണ്ട് അതിനാൽ ഇത് ഒരു ബബിൾ അത് ചലിക്കുന്ന ബബിളിനെ നീക്കുന്നു ഇവിടെ ഗ്രാജുവേഷൻ ഗ്ലാസ് ട്യൂബ് ഉണ്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു സ്പിരിറ്റ് ഒരു കോണീയ അളക്കൽ ഉപകരണമാണ് അതിൽ ബബിൾ എല്ലായ്പ്പോഴും ഗ്ലാസ് പാത്രത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് നീങ്ങുന്നു ബേസ് റഫറൻസ് തലം എന്ന് വിളിക്കുന്നു ഇതാണ് റഫറൻസ് തലം ഒരു മെഷീൻ ഭാഗത്ത് ഇരിക്കുകയാണ് ഇതിനായി പരന്നതയുടെ നേരായത നിർണ്ണയിക്കാനാകും ഒരുപക്ഷേ അത് ഇവിടെ വരാം ശരിയാകാം അതിനാൽ ആകാം അടിസ്ഥാനം തിരശ്ചീനമാകുമ്പോൾ ബബിൾ ഗ്രാജുവേഷൻ ഉള്ള സ്കെയിലിന്റെ മധ്യത്തിൽ നിൽക്കുന്നു സ്പിരിറ്റ് ലെവലിന്റെ പ്രകടനം നിയന്ത്രിക്കുന്നത് ബബിളും രണ്ട് റഫറൻസുകളും തമ്മിലുള്ള ജ്യാമിതീയ ബന്ധമാണ് ഇവ വിവിധ സ്പിരിറ്റ് ലെവലുകൾ ആണ് അവ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് ആദ്യത്തെ സ്പിരിറ്റ് ലെവൽ ആദ്യ റഫറൻസ് ഗുരുത്വാകർഷണത്തിന്റെ ഫലമാണ് രണ്ടാമത്തേത് അളക്കുന്നത് ബബിളിനെതിരെയുള്ള സ്കെയിൽ ആണ് ആദ്യം നമ്മൾ അത് പരന്ന പ്രതലത്തിന് എതിരായി വയ്ക്കാനും ആംഗിൾ അളക്കാനും തുടർന്ന് അളവ് എടുക്കാനും ശ്രമിക്കുന്നു സ്പിരിറ്റ് ലെവലിന്റെ ഒരു പ്രത്യേക കേസാണ് ക്ലിനോമീറ്റർ കാരണം സാധാരണയായി ഒരു സ്പിരിറ്റ് ലെവലിൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു ചെറിയ കോണാകാൻ ശ്രമിക്കും ഇത് ഇതുപോലെയാകും ഇത് 0 പോയിന്റായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് പരമാവധി 10 ഡിഗ്രി ഉണ്ടാകും ഈ വശത്തു നിങ്ങൾക്ക് 10 ഡിഗ്രി ഉണ്ടാകും നിങ്ങളുടെ കൈവശമുള്ള പരമാവധി ഗ്രാജുവേഷൻസ് ഇതാണ് നിങ്ങൾക്ക് വളരെ വലിയ പ്രദേശം അളക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പിരിറ്റ് ലെവൽ ഉപയോഗിക്കാൻ കഴിയില്ല അതിനാൽ ഈ ക്ലിനോമീറ്റർ ഉൾക്കൊള്ളുന്നതിനാൽ ഒരു ഫ്രെയിമിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ലെവൽ ഉൾക്കൊള്ളുന്നു അതിനാൽ തിരശ്ചീന റഫറൻസുമായി ബന്ധപ്പെട്ട് ഫ്രെയിം ആവശ്യമുള്ള ഏത് കോണിലും ഓണാക്കാം ഇവിടെ കൃത്യത 1 മിനിറ്റ് വരെ പോകാം അതിനാൽ ഉപരിതലങ്ങളുടെ നേരായതും പരന്നതും നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു ജിഗ് ബോറിംഗ് മെഷീന്റെ പട്ടികകൾ സജ്ജീകരിക്കുന്നതിനും മെഷീനിങ് ആയി ഉപരിതലത്തിൽ ഗ്രൈൻഡിങ് കോണീയ ജോലികൾക്കും ഇവ ഉപയോഗിക്കുന്നു നമ്മൾ ഈ ക്ലിനോമീറ്റർ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് അത് കാണാൻ കഴിയും അതിനാൽ നിങ്ങളുടെ ബെവൽ പ്രൊട്ടക്റ്റർ പോലെ ആംഗിൾ ലോക്ക് മാറ്റാൻ ഇവിടെ ശ്രമിക്കാം ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് ഇവിടെ ഉപവിഭാഗം ഉണ്ട് നിങ്ങൾക്ക് അടിസ്ഥാന ആംഗിൾ നേടാൻ ശ്രമിക്കാം തുടർന്ന് ഒരു മിനിറ്റ് അളവ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും ഒരു വലിയ കോണിന് ഇത് കൂടുതൽ കൃത്യമാണ് നമ്മൾ ഈ ക്ലിനോമീറ്ററുകൾ ഉപയോഗിക്കുന്നു അടുത്ത ചർച്ചാവിഷയം ഓട്ടോകോളിമേറ്റർ ആയിരിക്കും ചെറിയ കോണുകളെ വളരെ ഉയർന്ന അളവിലേക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഉപകരണമാണ് ഓട്ടോകോളിമേറ്റർ ഇതുവരെ നമ്മൾ അളക്കുന്നത് നമ്മൾ ഡിഗ്രി അളക്കുകയായിരുന്നു തുടർന്ന് നമ്മൾ മിനിറ്റിലേക്ക് പോയി തുടർന്ന് നമ്മൾ രണ്ടാമത്തേതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടാമത്തെ ലെവലിലും മിനിറ്റ് ലെവലിലും നിങ്ങൾ കൂടുതൽ സെൻസിറ്റീവ് ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ എല്ലായ്പ്പോഴും ഓട്ടോകോളിമേറ്റർ ഉപയോഗിക്കുന്നു കൃത്യമായ വിന്യാസം കോണീയ ചലനത്തിന്റെ കിഴിവ് ആംഗിൾ മാനദണ്ഡങ്ങളുടെ സ്ഥിരീകരണം ദീർഘകാലത്തേക്ക് കോണീയ നിരീക്ഷണം എന്നിവ ഉൾപ്പെടെ നിരവധി തരം ആപ്ലിക്കേഷനുകൾ ഓട്ടോകോളിമേറ്ററിന് ചെയ്യാനാകും ഞാൻ ഓട്ടോ കോളിമേറ്റർ എന്ന് പറയുമ്പോൾ നിമിഷം ഞാൻ കോളിമേറ്റ് എന്ന് പറയുന്നു അത് ഒരു പ്രകാശമായിരിക്കണം ഓട്ടോകോളിമേറ്ററിൽ പ്രകാശത്തിന്റെ ഒരു ബീം നമ്മൾ ഉപയോഗിക്കുന്നു പ്രതിഫലനം ഉപയോഗിക്കുന്നു ഇതൊരു ഓട്ടോകോളിമേറ്ററാണ് നമ്മൾ ചെയ്യുന്നത് ലൈറ്റുകൾ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതാണ് ബീം സ്പ്ലിറ്റർ ഇത് ഒബ്ജക്റ്റിലോ റഫറൻസിലോ പതിക്കുന്നു തുടർന്ന് ഇത് തിരികെ പ്രൊജക്റ്റുചെയ്യുന്നു ഇത് പുനർനിർമ്മിക്കുന്നു തുടർന്ന് നമ്മൾ ഇത് ഐപീസിലൂടെ കാണുന്നു അതിനാൽ ഇത് പ്രകാശമാണ് ഐപീസിൽ നിങ്ങളുടെ പക്കലുള്ളത് ഐപീസിന് മുമ്പുള്ളതാണ് നമ്മൾക്ക് ഒരു ക്രോസ് വയർ ഉണ്ട് തുടർന്ന് ഇത് പ്രൊജക്ടറാണ് ഇത് റിഫ്ലക്ടറാണ് അതിനാൽ വെളിച്ചം ഇവിടെ നിന്ന് വരുന്നു ബീം സ്പ്ലിറ്ററിലേക്ക് പോകുന്നു അത് പ്രകാശത്തെ വിഭജിക്കുന്നു അതിന്റെ പകുതി ഈ വഴിക്ക് പോകുന്നു അത് ഉപരിതലത്തിൽ അടിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് അത് തിരികെ വരുന്നു അവ പുനർനിർമ്മിക്കുന്നു നിങ്ങൾക്കത് ഐപീസിൽ കാണാൻ കഴിയും തുടർന്ന് നിങ്ങൾക്കത് ഐപീസ് ഭാഗത്ത് കാണാനാകും അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്രോസ് വയർ ഉണ്ടാകും അത് കാണാം നിങ്ങൾ ഇത് വളരെ വ്യക്തമായി നോക്കുകയാണെങ്കിൽ y കേന്ദ്രത്തിൽ നിന്ന് ഒരു കോണിലേക്ക് സ്ഥാനഭ്രഷ്ടനാകുന്നത് നിങ്ങൾ കാണുന്നു Y ആണ് ഈ സ്ഥാനചലനം ഈ സ്ഥാനചലനം കാരണം വർക്ക് പീസിൽ സൂക്ഷിച്ചിരിക്കുന്ന റഫറൻസ് പ്ലേറ്റ് അല്ലെങ്കിൽ മിറർ ഇതാണ് വർക്ക് പീസ് അതിനാൽ ഇത് ഒരു കോണിലാണ് അതിനാൽ പ്രതിഫലനം സംഭവിക്കുന്നു ഒരു സ്ഥാനചലനം ഉണ്ട് അതിനാൽ ഇതാണ് ∆y ഇത് സ്ഥാനചലനത്തിന്റെ അടിസ്ഥാനത്തിൽ കോണിനെ അളക്കാൻ ഉപയോഗിക്കുന്നു നമുക്ക് അത് നേടാൻ ശ്രമിക്കാം അതിനാൽ ഒരു ഓട്ടോകോളിമേറ്റർ ഉപയോഗിച്ച് വളരെ ചെറിയ കോണുകൾ അളക്കാൻ കഴിയും റിഫ്ലക്റ്റർ പ്രതിഫലിപ്പിക്കുന്ന ബാഹ്യങ്ങളെല്ലാം ഉപകരണത്തിലേക്ക് തിരികെ ബീമിന്റെ ഭാഗമാണ് അവിടെ ബീം ഫോക്കസ് ചെയ്യുകയും ഫോട്ടോ ഡിറ്റക്ടർ കണ്ടെത്തുകയും ചെയ്യുന്നു പുറത്തുവിടുന്ന ബീമും പ്രതിഫലിച്ച ബീമും തമ്മിലുള്ള വ്യതിയാനം ഓട്ടോകോളിമേറ്റർ അളക്കുന്നു ഒരു ആംഗിൾ അളക്കാൻ ലൈറ്റുകളുടെ ഓട്ടോകോളിമേറ്റർ ഉപയോഗിക്കുന്നതിനാൽ നമുക്ക് ഇത് വളരെ ദൂരം പരീക്ഷിക്കാനും ഔട്ട്പുട്ട് നേടാൻ ശ്രമിക്കാനും കഴിയും വളരെയധികം നന്ദി